കഴിഞ്ഞ ക്ലാസ്സിൽ ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നമ്മൾ പരിശോധിച്ചു അതിനെ തുടർന്ന് ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് കണ്ടെത്തുന്നതിന് രണ്ട് രീതികൾ നമ്മൾ നോക്കി ആദ്യ രീതിയിൽ നമ്മൾ ഒരു നിർദ്ദിഷ്ട പ്രശ്നം ഏറ്റെടുക്കുകയും വിള്ളൽ ഉപരിതല ഡിസ്പ്ലേസ്മെൻറ് വിലയിരുത്തുകയും ചെയ്തു അത് ഉപയോഗിച്ച് ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് കണക്കാക്കി രണ്ടാമത്തെ കേസിൽ ഊർജ്ജ പുറന്തള്ളൽ നിരക്കിന്റെ അടിസ്ഥാന നിർവചനം നമ്മൾ പരിശോധിച്ചു ഒരു ക്രാക്ക് ഫ്രണ്ട് പെർ ക്രാക്ക് ടിപ്പിന് പെർ യൂണിറ്റ് കനത്തിൻറെ യൂണിറ്റ് എക്സ്റ്റൻഷന് പുറന്തള്ളുന്ന ഊർജമാണ് അതിനാൽ നമ്മൾ പ്രശ്നത്തെ കൂടുതൽ അടിസ്ഥാനപരമായി നോക്കി സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ K യും എനർജി റിലീസ് റേറ്റ് G യും തമ്മിലുള്ള ബന്ധം നമ്മൾ വിലയിരുത്തി നിങ്ങൾ ആനിമേഷൻ കാണുകയാണെങ്കിൽ ഈ പരസ്പര ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ സ്വീകരിച്ച സമീപനം എന്താണെന്ന് ഇത് നൽകുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ നോക്കിയത് എന്താണ് നിങ്ങൾ ക്രാക്ക് ടിപ്പിന്റെ ഒരു ചെറിയ വിപുലീകരണം നോക്കി ഡെൽറ്റ a അതിനുപകരം അത് a മുതൽ ഡെൽറ്റ a വരെ നീളുന്നു a പ്ലസ് ഡെൽറ്റ a നീളമുള്ള ഒരു വിള്ളൽ എടുത്ത് ക്രാക്ക് ടിപ്പിന്റെ ഒരു ഭാഗം അടയ്ക്കുന്ന കാര്യം നമ്മൾ പരിശോധിച്ചു ബ്രിട്ടിൽ വസ്തുക്കളുടെ കാര്യത്തിൽ വിള്ളൽ ഭേദമാകുന്നതായി നിരീക്ഷിക്കപ്പെട്ടു അതിനാൽ നമ്മൾ ശരിക്കും റിവേർസിബിൾ പ്രോസസുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ വിള്ളലിന്റെ ചെറിയ വിപുലീകരണം അടയ്ക്കാൻ ആവശ്യമായ ഊർജ്ജം എന്തായാലും വിള്ളൽ ഒരു ചെറിയ അളവിൽ വ്യാപിക്കുമ്പോൾ പുറത്തുവിടുന്ന ഊർജ്ജമായിരിക്കും പിന്നെ നമ്മൾ ഗണിതശാസ്ത്രത്തിലേക്ക് നോക്കി അതിനാൽ പ്രക്രിയകളിൽ മോഡ് I ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡും സ്ട്രെസ് ഫീൽഡും എനർജി എക്സ്പ്രഷൻ എഴുതാൻ ഉചിതമായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു അതിനാൽ ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ തീറ്റയുടെ മൂല്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഡിസ്പ്ലേസ്മെൻറ്നായി Q ഉത്ഭവസ്ഥാനമായി നമ്മൾ എടുത്തിട്ടുണ്ട് അതിനാൽ തീറ്റ പൈ ആയി മാറുന്നു സ്ട്രെസ്ന്റെ മൂല്യനിർണ്ണയത്തിനായി തീറ്റ വെറും 0 ഡിഗ്രിയാണ് കാരണം സ്ട്രെസ് വിലയിരുത്തുന്നതിനുള്ള ഉറവിടമായി P എടുക്കുന്നു

അതിനാൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അടിസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി എനർജി എക്സ്പ്രഷൻ എഴുതാം ക്രാക്ക് ദൈർഘ്യത്തിന്റെ ചെറിയ വിപുലീകരണത്തിനും നമ്മൾ ലളിതമാക്കി സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകത്തിൽ മാറ്റമുണ്ടാകാമെങ്കിലും K യുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഡെൽറ്റ K I യെ അവഗണിക്കും അതിനാൽ ലളിതവൽക്കരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഫലം ലഭിക്കും ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് G സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകം എന്നിവ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലം ഇവിടെ എഴുതിയ മറ്റൊരു പദപ്രയോഗം ഉണ്ട് G ഷിയർ മോഡുലസ് ആണ് എനർജി റിലീസ് റേറ്റിനെ പ്രതിനിധീകരിക്കുന്നതിന് നിങ്ങൾ സഫിക്സിനൊപ്പം G ഉപയോഗിക്കുന്നു വാസ്തവത്തിൽ മുമ്പത്തെ ചില പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവ രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ അവർ ഊർജ്ജ പുറന്തള്ളൽ നിരക്ക് സൂചിപ്പിക്കുന്നതിന് ഒരു സ്റ്റൈലിഷ് G പോലും ഉപയോഗിക്കുന്നു സന്ദർഭം മനസ്സിൽ വെച്ചുകൊണ്ട് ഉചിതമായ സഫിക്സുകളുപയോഗിച്ച് നമ്മൾ ഊർജ്ജ പുറന്തള്ളൽ നിരക്കിനെക്കുറിച്ചാണോ അതോ G ഷിയർ മോഡുലസിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇപ്പോൾ ഒരു പ്ലെയിൻ സ്ട്രെസ് സാഹചര്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ലളിതമായ പരിഷ്ക്കരണത്തോടെ നിങ്ങൾ പ്ലെയിൻ സ്ട്രെസ്നായി എക്സ്പ്രഷനുകൾ വികസിപ്പിച്ചുകഴിഞ്ഞാൽ പ്ലെയിൻ സ്ട്രെയിൻ മൂല്യം നേടാൻ കഴിയും എനിക്ക് യങ്സ് മോഡുലസ് ഉണ്ടെങ്കിൽ നിങ്ങൾ യങ്സ് മോഡുലസ് E ബൈ 1 മൈനസ് ന്യൂ സ്ക്വയറിലൂടെ മാറ്റിസ്ഥാപിക്കും അതിനാൽ പ്ലെയിൻ സ്ട്രെയിൻ നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ G I എന്നത് 1 മൈനസ് ന്യൂ സ്ക്വയേർഡ് K സ്ക്വയേർഡ് ബൈ E എന്നതിനു തുല്യമാണ് അതിനാൽ നിങ്ങൾ മോഡ് I ലോഡിംഗ് കാര്യത്തിൽ പ്ലെയിൻ സ്ട്രെസ് പ്ലെയിൻ സ്ട്രെയിൻ എന്നിവ അറിയുക ഊർജ്ജ പുറന്തള്ളൽ നിരക്കും സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകവും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ് മോഡ് I നായി നിങ്ങൾ വികസിപ്പിച്ചുകഴിഞ്ഞാൽ സമാനമായ രീതിയിൽ മോഡ് II മോഡ് III എന്നിവയ്ക്കുള്ള എനർജി എക്സ്പ്രഷനും നിങ്ങൾക്ക് ലഭിക്കും ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ സ്ട്രെസ് ഫീൽഡ് മോഡ് II ലും മോഡ് III ലും വികസിപ്പിക്കാൻ ശ്രമിക്കും അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് K II KIII എന്നിവ K I നെ മാറ്റിസ്ഥാപിക്കാൻ ഉണ്ടാകും അതിനാൽ GII യും KIIയും GIIIയും KIIIയും തമ്മിലുള്ള പരസ്പരബന്ധം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ മോഡ് II സാഹചര്യത്തിന്റെ കാര്യത്തിൽ പ്ലെയിൻ സ്ട്രെസ് ൽ പദപ്രയോഗം KII സ്ക്വയർ by ബൈ E ആയി മാറുന്നു മോഡ് I നുള്ളതിനോട് വളരെ സാമ്യമുണ്ട് പ്ലെയിൻ സ്ട്രെയിനെ സംബന്ധിച്ചിടത്തോളം ഇത് 1 മൈനസ് ന്യൂ സ്ക്വയേർഡ് KII സ്ക്വയേർഡ് ബൈ E ആയി മാറുന്നു വീണ്ടും മോഡ് I ന് സമാനമാണ് മോഡ് III ന് ചെറിയ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് K III മായി ബന്ധപ്പെട്ടിരിക്കുന്ന G III ഉണ്ട്അത് 1 പ്ലസ് ന്യൂ തവണ K III സ്ക്വയർ ബൈ E ആണ് അത് K III സ്ക്വയർ ബൈ 2 G ക്ക് തുല്യമാണ് G എന്നത് ഷിയർ മോഡുലസ് ആണെന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് Refer Slide Time 0710 അതിനാൽ ലോഡിംഗ് ചെയ്യുന്ന മൂന്ന് മോഡുകൾക്കുമായി എനർജി റിലീസ് റേറ്റ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്നിവയുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളുണ്ട് നമ്മൾ അവയെ പ്രത്യേകം നോക്കി ഒരു പൊതു സാഹചര്യത്തിൽ മൂന്ന് മോഡുകളും വ്യത്യസ്ത അനുപാതത്തിൽ ദൃശ്യമാകും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് G ആകെ G I പ്ലസ് G II പ്ലസ് G III ആയിരിക്കും ഓർക്കുക ഇത് ഒരു ഊർജ്ജ അളവാണ് അതിനാൽ എനിക്ക് ഇവ മൂന്നും ചേർക്കാൻ കഴിയും എനിക്ക് K I പ്ലസ് KII പ്ലസ് K III ചേർക്കാൻ കഴിയില്ല എനിക്കത് ചെയ്യാന് സാധിക്കില്ല വ്യത്യസ്ത ലോഡുകൾ ഞാൻ ലോഡുചെയ്യുന്ന മോഡ് നൽകുന്നുവെങ്കിൽ ഞാൻ സൂപ്പർപോസിഷന്റെ തത്വം ഉപയോഗിക്കുമ്പോൾ ആ ഉപ പ്രശ്നങ്ങൾക്ക് K I a പ്ലസ് K I b പ്ലസ് K I c അങ്ങനെ പലതും ചേർക്കാൻ കഴിയും വാസ്തവത്തിൽ ഫൈനൈറ്റ് ബോഡിക്കായുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകം വിലയിരുത്തുന്നതിനുള്ള ഒരു പ്രത്യേക അധ്യായം നമുക്ക് ഉണ്ടായിരിക്കും അവിടെ നമ്മൾ സൂപ്പർപോസിഷൻ തത്വം ഉപയോഗിക്കുകയും അത് ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യും എനർജി മൂല്യം ആയതിനാൽ എനിക്ക് വ്യക്തിഗത ഊർജ്ജം ഉള്ളപ്പോൾ സുഖമായി ചേർക്കാൻ കഴിയും വാസ്തവത്തിൽ ചില ഫൈനൈറ്റ് എലമെൻറ് കോഡുകൾ നിങ്ങൾക്ക് G I യുമായി ബന്ധപ്പെട്ട ഊർജ്ജത്തേക്കാൾ മൊത്തം ഊർജ്ജം നൽകുന്നു അത് മോഡ് I അല്ലെങ്കിൽ മോഡ് II അല്ലെങ്കിൽ മോഡ് III ആണ് പിന്നെ അവയെ വേർതിരിക്കുന്നതിന് പ്രത്യേക ശ്രമങ്ങൾ നടത്തുകയും സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകങ്ങളെ പ്രത്യേകം വിലയിരുത്തുകയും വേണം മോഡ് II ലെ ടിപ്പ് സ്ട്രെസ് ഫീൽഡിനുള്ള വെസ്റ്റർഗാർഡ് പരിഹാരം ഇപ്പോൾ ഒരു മോഡ് II സാഹചര്യത്തിന്റെ കാര്യത്തിൽ സ്ട്രെസ് ഫീൽഡ് കണ്ടെത്താൻ നമ്മൾ മുന്നോട്ട് പോകുന്നു നമ്മുടെ ശ്രദ്ധ വളരെ വ്യക്തമാണെന്ന് നിങ്ങൾക്കറിയാം വെരി നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ നമ്മൾ വിലയിരുത്താൻ പോകുന്നു അതിർത്തിയിൽ ഷിയർ സ്ട്രെസ് ഉള്ള ഒരു ചിത്രം ഇവിടെ കാണിച്ചിരിക്കുന്നു ഒരു ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ് ആണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ ഉള്ള ഒരു വിള്ളൽ പറ്റിയാണ് വിള്ളൽ ശരീരത്തിന്റെ മുഴുവൻ കട്ടിയിലും ഉണ്ട് വിശകലനം ചെയ്യുന്നത് അവ വളരെ ലളിതമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഷിയറിംഗ് മോഡ് ഇൻ പ്ലെയിൻ ഷിയർ മോഡ് ഉണ്ട് വിള്ളൽ ഉപരിതലങ്ങൾ ഇതുപോലെ ഷിയർ ആകുന്നു അക്ഷങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് x ആക്സിസ് y ആക്സിസ് വസ്തുവിൻറെ അതേ പ്ലെയിനിൽ ആണ് z ആക്സിസ് ലംബമാണ് മോഡ് I നായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിനോട് ഈ പ്രശ്നം വളരെ സാമ്യമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം മോഡ് I നായി നമ്മൾ ഇതിനകം സമഗ്രമായി പഠിച്ചു ഇവിടെ ഞാൻ പ്രധാന ഫലങ്ങൾ മാത്രം പരാമർശിക്കാൻ പോകുന്നു ഞാൻ അവ നേടാൻ പോകുന്നില്ല നിങ്ങളുടെ ഒരു എക്സർസൈസ് ആയി നിങ്ങൾക്കത് എടുത്ത് അന്തിമ ഫലങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാം ഈ പ്രശ്നങ്ങളിലെല്ലാം ആദ്യപടി എന്താണ് പ്രശ്നത്തിനുള്ള എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയുക എന്നതാണ് ആദ്യപടി മോഡ് II ലോഡിംഗിനായി ഇത് phi എന്നത് മൈനസ് y ZII ബാറിന്റെ യഥാർത്ഥ ഭാഗമായി നൽകിയിരിക്കുന്നു കാരണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധ മോഡ് I മോഡ് II മോഡ് III എന്നിവയിൽ മാത്രം ഒതുങ്ങുന്നു അതിനാൽ ഇതാണ് വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് പ്രവർത്തനം ഈ സ്ട്രെസ് ഫംഗ്ഷൻ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് നമ്മൾ നോക്കണം നിങ്ങൾ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എല്ലാ അനലിറ്റിക് ഫംഗ്ഷനുകളും എറിസ് സ്ട്രെസ് ഫംഗ്ഷന്റെ സ്ഥാനാർത്ഥികളാണ് എന്നതാണ് അവ ബൈ ഹാർമോണിക് സമവാക്യം തൃപ്തിപ്പെടുത്തും ഇവിടെയുള്ള ഭംഗി എന്തെന്നാൽ ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ് പ്രശ്നത്തിനായുള്ള വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫംഗ്ഷൻ ഇത് പോലെ ലളിതമാണ് മോഡ് I മോഡ് II എന്നിവയ്ക്കായുള്ള ഈ വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫംഗ്ഷൻ തമ്മിലുള്ള മാറ്റം എന്താണ് സ്ട്രെസ് മാത്രമേ സിഗ്മയിൽ നിന്ന് tau ലേക്ക് മാറ്റൂ അതിനാൽ അതാണ് നേട്ടം അങ്ങനെ അവൻ ഒരു സ്വർണ്ണ ഖനി അടിച്ചു മോഡ് I നായി ഒരു സ്ട്രെസ് ഫംഗ്ഷൻ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് നിങ്ങൾക്കറിയാം ചെറിയ പരിഷ്കരണത്തിലൂടെ മോഡ് II സാഹചര്യങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ചെറിയ പരിഷ്ക്കരണത്തിലൂടെ ഒരാൾക്ക് മോഡ് III പ്രശ്നങ്ങളും പരിഹരിക്കാനാകും രൂപവത്കരണം ഡിസ്പ്ലേസ്മെൻറ് അടിസ്ഥാനമാക്കി ഉള്ളതാണെങ്കിലും സ്ട്രെസ് ഫംഗ്ഷന്റെ രൂപം ലളിതവും സമാനവുമാണ് ഓരോന്നിലും സ്ട്രെസ് അളവ് മാത്രമേ മാറുന്നുള്ളൂ നിങ്ങൾ ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാന പ്രശ്നം എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ വിള്ളലിന്റെ കട്ടിയിലൂടെ വിശകലനം ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ക്രാക്ക് ഫ്രണ്ട് നേരെയാണ് ക്രാക്ക് ഫ്രണ്ട് നേരെയാണെങ്കിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകം ആ മുൻവശത്ത് സ്ഥിരമായി തുടരും ഫ്രാക്ചർ മെക്കാനിക്സിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതേ സമയത്താണ് സ്നെഡൺ പരിഹരിച്ച ഒരു ചില്ലിക്കാശിന്റെ ആകൃതിയിലുള്ള വിള്ളൽ എനിക്കുള്ളതെന്ന് കരുതുക ഒരു സോളിഡിലെ ചില്ലിക്കാശിന്റെ ആകൃതിയിലുള്ള വിള്ളലിന്റെ ത്രിമാന പ്രശ്നം സ്നെഡൺ പരിഹരിച്ചു അവിടെ നിങ്ങൾക്ക് ഒരു വളഞ്ഞ വിള്ളൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു അതിനാൽ ഇവിടെയുള്ള ക്രാക്ക് ഫ്രണ്ട് നേരെയാണ് നിങ്ങൾ അത് മനസ്സിൽ സൂക്ഷിക്കണം ഇവയെല്ലാം നമുക്ക് എളുപ്പത്തിൽ വിശകലനം ചെയ്യാനുള്ള വളരെ ലളിതമായ സാഹചര്യങ്ങളാണ്

ഇവിടെ സൂചിപ്പിച്ചതുപോലെ എറിസ് സ്ട്രെസ് ഫംഗ്ഷൻ ബൈ ഹാർമോണിക് തൃപ്തികരമാണോ എന്ന് ഞാൻ പരിശോധിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഫംഗ്ഷന്റെ രൂപം നോക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ തൃപ്തിപ്പെടുത്തും ഞാൻ അത് നിങ്ങൾക്ക് ഒരു എക്സസൈസ് ആയി നൽകുന്നു അതിനാൽ മോഡ് I ന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തതുപോലെ സ്ട്രെസ് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ സിഗ്മ xx സിഗ്മ yy tau xy എന്നിവയ്ക്കുള്ള പദപ്രയോഗം നമുക്ക് ലഭിക്കും സ്ട്രെസ് ഫംഗ്ഷൻ ഞാൻ പ്രകടിപ്പിക്കുന്ന രീതിയെ ആശ്രയിച്ച് ഇരിക്കും നമ്മൾ സ്ട്രെസ് ഫീൽഡിനെയോ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിനെയോ ക്രാക്ക് സെൻറർ ഉത്ഭവമായി കാണണോ അല്ലെങ്കിൽ ക്രാക്ക് ടിപ്പ് ഉത്ഭവമായി കാണണോ എന്ന് നമുക്ക് ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾ ഇത് ഈ രീതിയിൽ പ്രകടിപ്പിക്കുമ്പോൾ ഇത് വിള്ളലിന്റെ കേന്ദ്രത്തെ ഉത്ഭവമായി കണക്കാക്കുന്നു അതിനാൽ എനിക്ക് സിഗ്മ xx ഉണ്ട് അത് 2 ZII യുടെ സാങ്കൽപ്പിക ഭാഗം പ്ലസ് y ZII പ്രൈമിന്റെ യഥാർത്ഥ ഭാഗത്തിനും തുല്യമാണ് സിഗ്മ yy മൈനസ് y ഇരട്ടി ZII പ്രൈമിന്റെ യഥാർത്ഥ ഭാഗത്തിനും തുല്യമാണ് tau xy ZII പ്രൈമിന്റെ യഥാർത്ഥ ഭാഗം മൈനസ് y ഗുണം ZII പ്രൈമിന്റെ സാങ്കല്പിക ഭാഗത്തിനും തുല്യമാണ് അതിനാൽ നമുക്ക് സ്ട്രെസ് ഫീൽഡ് ഉണ്ട് അടുത്തത് നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ഉണ്ടാകും ഇത് പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിന് വേണ്ടി നൽകിയിരിക്കുന്നു ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് u x എന്നത് 1 ബൈ 2G ഗുണം 2 ഗുണം 1 മൈനസ് ന്യൂ ഗുണം ZII ബാറിന്റെ സാങ്കൽപ്പിക ഭാഗം പ്ലസ് y ഗുണം ZII യുടെ യഥാർത്ഥ ഭാഗമായും കാണാം കൂടാതെ ഡിസ്പ്ലേസ്മെൻറ് ഘടകം 1ബൈ 2G ഗുണം മൈനസ് 1 മൈനസ് 2 ന്യൂ ZII ന്റെ റിയൽ ഭാഗം മൈനസ് y ഗുണം ZII ബാറിന്റെ സാങ്കല്പിക ഭാഗം നൽകുന്നു നിങ്ങൾ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം അത്തരം ദൈർഘ്യമേറിയ പദപ്രയോഗങ്ങൾ എഴുതുന്നത് മടുപ്പിക്കുന്നതായി തോന്നുമെങ്കിലും ഈ വിവരങ്ങൾ വളരെ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾ കണ്ടെത്തും കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് പ്രസക്തമായ എല്ലാ വിവരങ്ങളുടെയും ഒരു സമാഹാരം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഈ പദപ്രയോഗങ്ങൾ എഴുതുന്നത് മൂല്യവത്താണ്

മോഡ് I ന്റെ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്തത് നമുക്ക് സ്ട്രെസ് ഫീൽഡ് ലഭിച്ചു അടുത്ത ഘട്ടം ഉറവിടം മാറ്റുക അതായത് വിള്ളലിന്റെ മധ്യഭാഗത്ത് നിന്ന് വിള്ളലിന്റെ അറ്റം വരെ മോഡ് II നും മോഡ് III നും നമ്മൾ ഇത് ചെയ്യും എല്ലാ കേസുകൾക്കും നമ്മൾ അതിന്റെ ഉറവിടം ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റും ക്രാക്ക് ടിപ്പിന് വളരെ അടുത്തുള്ള ഒരു സോണിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന സ്ട്രെസ് ഫീൽഡ് സാധുതയുള്ളതെന്നത് ഏകദേശം കണക്കാക്കുന്നു എത്ര അടുത്താണ് ഇത് പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ഇതാണ് സൂക്ഷ്മമായ പോയിന്റ് ഏത് ദൂരം വരെ പരിഹാരം സാധുതയുള്ളതാണെന്ന് പറയാൻ കൃത്യമായ മൂല്യങ്ങളൊന്നുമില്ല പരിഗണനയിലുള്ള പ്രശ്നത്തിന് അനുസരിച്ചാണ് എത്രത്തോളം അടുത്താണ് എന്ന ചോദ്യം അതിനാൽ നിങ്ങൾ ഉറവിടം വിള്ളലിന്റെ മധ്യഭാഗത്ത് നിന്ന് വിള്ളലിന്റെ അഗ്രത്തിലേക്ക് മാറ്റുന്നു ഏകദേശ കണക്ക് നിങ്ങൾ മോഡ് I നായി ചെയ്തതുപോലെയാണ് അതിനാൽ z നോട്ട് പ്ലസ് a എന്നതിനുപകരം z നോട്ട് വളരെ ചെറുതാണെന്ന് നിങ്ങൾ പറയും സ്ട്രെസ് ഫംഗ്ഷൻ ഇതുപോലെയായി മാറുന്നു tau ഗുണം റൂട്ട് പൈ a ബൈ 2 pi z നോട്ട് മോഡ് I ന്റെ കാര്യത്തിലും നിങ്ങൾ കണ്ടത് ഇതാണ് ഇവിടെ വീണ്ടും അങ്ങനെതന്നെ നമ്മൾ വീണ്ടും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ K II ൻറെ നിർവചനം നൽകും K II എന്നത് tau റൂട്ട് പൈ a എന്നാണ് നിർവചിച്ചിരിക്കുന്നത് അതിനാൽ എനിക്ക് Z II എന്ന് പദപ്രയോഗം K II ബൈ റൂട്ട് 2 pi z നോട്ട് ന് തുല്യമായി പുനർനിർമിക്കാൻ കഴിയും ഇത് K II ബൈ റൂട്ട് 2 pi ഗുണം r e പവർ i theta മുഴുവൻ പവർ മൈനസ് പകുതി എന്ന് പരിഷ്കരിക്കാനാകും

അത്തരം ഫംഗ്ഷനുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവിൽ നിന്ന് കോസ് തീറ്റ ബൈ 2 മൈനസ് i സൈൻ തീറ്റ ബൈ 2 എന്ന പ്രകാരം നിങ്ങൾക്ക് അവ പുനർനിർമ്മിക്കാൻ കഴിയും ഒടുവിൽ r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ എക്സ്പ്രഷനുകൾ നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് ഞാൻ ഇതിനകം ചൂണ്ടിക്കാണിച്ചിരുന്നു നമ്മൾ പ്രധാനമായും കാർട്ടീഷ്യൻ സ്ട്രെസ് ഘടകങ്ങളെ വിലയിരുത്തുകയാണ് ഇവ r തീറ്റ എന്നിവയുടെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നു കാരണം സങ്കീർണ്ണ സംഖ്യകൾ എളുപ്പത്തിൽ കാണിക്കുന്നതിനായി r e പവർ i തീറ്റയായി പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ടാണ് r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് എഴുതുന്നത് അതിനാൽ നമുക്ക് സ്ട്രെസ് ഫീൽഡ് കണ്ടെത്തുന്നതിന് എനിക്ക് ZII യും ZII പ്രൈമും ആവശ്യമാണ് ZII പ്രൈം ഇതുപോലെയായി മാറുന്നു മൈനസ് KII ബൈ 2 pi r പവർ 3 ബൈ 2 ഗുണം കോസ് 3 തീറ്റ ബൈ 2 മൈനസ് i സൈൻ 3 തീറ്റ ബൈ 2 നിങ്ങൾക്കറിയാമോ കോഴ്സിന്റെ പാതിവഴിയിൽ നിങ്ങൾ സിംഗുലാർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ എങ്കിലും ഓർമ്മയിൽ കാണും നിങ്ങൾ അവ വീണ്ടും വീണ്ടും കാണും ഫോം സമാനമായതിനാൽ അവ ഓർമ്മിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ് ഏകീകൃത പരിഹാരം കുറഞ്ഞത് ഉയർന്ന ഓർഡർ പരിഹാരം ഓർമ്മിക്കാൻ പ്രയാസമായിരിക്കും നിങ്ങൾ ഹാൻഡ് ബുക്ക്കളോ കുറിപ്പുകളോ നോക്കേണ്ടതുണ്ട് എന്നാൽ സിംഗുലാർ പരിഹാരം നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്

വെരി നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡ് കാണുക മുഴുവൻ ഭാഗവും വെരി നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡായി ആരംഭിച്ചു R തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇത് സ്ട്രെസ് ഫീൽഡ് എന്ന് പരാമർശിക്കപ്പെടുന്നു പക്ഷേ ഇത് വെരി നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡായി എടുക്കുക അതിനാൽ എനിക്ക് സിഗ്മ x സിഗ്മ y tau xy ഉണ്ട് K II ബൈ റൂട്ട് 2 പൈ r സൈൻ തീറ്റ ബൈ 2 എന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് സിഗ്മ x മൈനസ് 2 മൈനസ് കോസ് തീറ്റ ബൈ 2 കോസ് 3 തീറ്റ ബൈ 2 എന്നും സിഗ്മ y കോസ് തീറ്റ ബൈ 2 കോസ് 3 തീറ്റ ബൈ 2 എന്നും tau xy കോട്ട് തീറ്റ ബൈ 2 ഗുണം 1 മൈനസ് സൈൻ തീറ്റ ബൈ 2 സൈൻ 3 തീറ്റ ബൈ 2 എന്ന നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് ഗണിതശാസ്ത്രപരമായി കൃത്യത വേണമെങ്കിൽ നിങ്ങളുടെ വെസ്റ്റർഗാർഡിന്റെ പരിഹാരത്തിൽ നിന്ന് സാധ്യമല്ലാത്ത ഉയർന്ന ഓർഡർ പദങ്ങൾ നിങ്ങൾ ചേർക്കേണ്ടിവരും നമുക്ക് മറ്റ് രീതിശാസ്ത്രങ്ങൾ പരിശോധിച്ച് വിടവ് നികത്തേണ്ടതുണ്ട് കാരണം ടാഡ പാരിസ് ഇർവിൻ എന്നിവർ ചെയ്ത പോലെയുള്ള ലളിതമായ ബൈനോമിയൽ വിപുലീകരണം ഫലപ്രദമായില്ല അതിനാൽ നമുക്ക് വീണ്ടും ആ ചർച്ചയിലേക്ക് വരേണ്ടിവരും മോഡ് II ന്റെ കാര്യത്തിൽ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് നോക്കിയ ശേഷം നമ്മൾ ഐസോക്രോമാറ്റിക്സ് കാണും വിശകലന പദപ്രയോഗങ്ങൾ ഐസോക്രോമാറ്റിക്സ് എങ്ങനെ നൽകുന്നുവെന്നും അവ പരീക്ഷണങ്ങളുമായി എങ്ങനെ താരതമ്യം ചെയ്യുന്നുവെന്നും നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ മറ്റൊരു തരത്തിൽ ഉണ്ടാകും മോഡ് I ന്റെ കാര്യത്തിൽ ലളിതമായ ഹ്രസ്വ വിള്ളലുകൾക്ക് പോലും പിടിച്ചെടുക്കാൻ വെസ്റ്റർഗാർഡ് സിംഗുലാർ പരിഹാരം പര്യാപ്തമല്ലെന്ന് നമ്മൾ കണ്ടെത്തി അതിനാൽ നിങ്ങൾ ഈ സ്ട്രെസ് ഫീൽഡിനെ കൂടുതൽ സൂക്ഷ്മമായി നോക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്ന ഒരു വശം ഇവിടെ നിർണ്ണയിക്കപ്പെടുന്നു ഈ ഓരോ മാഗ്നിറ്റ്യൂഡുകളുടെയും ശക്തി നിർണ്ണയിക്കുന്നത് ഒരൊറ്റ പാരാമീറ്റർ മാത്രമാണ് ഫ്രാക്ചർ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ സവിശേഷമായ ഒന്നാണെന്ന് കാണുക 1957 ൽ ഇർവിൻ ഇത് തിരിച്ചറിഞ്ഞു 1957 വീണ്ടും ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വികസനത്തിൽ വളരെ നിർണായകമായ വർഷമാണ് നിരവധി നല്ല അടിസ്ഥാന പ്രബന്ധങ്ങൾ ആ വർഷം പ്രസിദ്ധീകരിച്ചു നിങ്ങൾക്ക് ഒരു വ്യത്യസ്ത കാണാൻ കഴിയുന്നത് പല തരത്തിലുള്ള ലോഡിംഗ് ഉള്ളപ്പോൾ ഇൻ പ്ലെയിൻ ഷിയർ മോഡ് അല്ലെങ്കിൽ ഓപ്പണിംഗ് മോഡ് അല്ലെങ്കിൽ ടിയറിംഗ് മോഡ് ഈ സന്ദർഭങ്ങളിലെല്ലാം വിതരണത്തിൽ മാറ്റമില്ല മോഡ് I മോഡ് II മോഡ് III എന്നിവയുടെ വിതരണം വ്യത്യസ്തമായിരിക്കും നിങ്ങൾ മോഡ് I നോക്കിയാൽ മോഡ് Iവ്യത്യസ്ത തരം ലോഡിംഗ് മൂലമാകാം ആ ലോഡിംഗുകൾക്കെല്ലാം വിതരണം സമാനമായിരിക്കും സ്ട്രെങ്ത് നിർണയിക്കുന്നത് K ആണ് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കണ്ടിന്യൂയിറ്റി ഉണ്ടെങ്കിൽ അത് കാണാൻ കഴിയില്ല നമുക്ക് ഒരു കട്ട് ഔട്ട് ഉണ്ടെങ്കിൽ കഥ വ്യത്യസ്തമാണ് അതിനാൽ ഇത് അദ്വിതീയമായ ഒന്നാണ് അതിനാലാണ് അടുത്തുള്ള ഫീൽഡ് അല്ലെങ്കിൽ വെരി നിയർ ടിപ്പ് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ വളരെ ജനപ്രിയമായത് ഫ്രാക്ചർ മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ നിന്ന് വളരെ പ്രധാനമായ ക്രാക്ക് പ്രോപ്പഗേഷൻ ആണ് നിങ്ങൾ ശരിക്കും നോക്കുന്നതെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിർണ്ണയിക്കപ്പെടുന്നു അതൊരു കാരണമാണെന്ന് കാണുക എന്തുകൊണ്ടാണ് നമ്മൾ ക്രാക്ക് ടിപ്പിനോട് വളരെ അടുത്ത് നോക്കുന്നത് സ്ട്രെസ് ഫീൽഡ് കണ്ട ശേഷം നമ്മൾ ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിലേക്ക് നീങ്ങും ഇവ വീണ്ടും ദൈർഘ്യമേറിയ പദപ്രയോഗങ്ങളാണ് അവ എഴുതാൻ ക്ഷമയോടെയിരിക്കുക എനിക്ക് u x എന്നത് K II ബൈ G റൂട്ട് 2 pi സിൻ തീറ്റ ബൈ 2 ഗുണം 2 മൈനസ് 2 ന്യൂ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്നതിനു തുല്യമാണ് കൂടാതെ മോഡ് I ന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതു പോലെ ഇവിടെ വീണ്ടും r 0 ആകുമ്പോൾ പരിഹാരം ബൌണ്ട്ഡ് ആണ് ഡിസ്പ്ലേസ്മെൻറ് അങ്ങനെയായിരിക്കണം നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ് പരിഹാരം നോക്കുമ്പോൾ സ്ട്രെസ്നു ലഭിച്ചതുപോലുള്ള അനന്തമായ മൂല്യങ്ങൾ ഇതിന് ഉണ്ടാകരുത് റിയൽ മെറ്റീരിയലുകൾക്ക് സ്ട്രെസ് യിൽഡ് സ്ട്രെസ് ഇൽ എത്തുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ അത് സംഭവിക്കും അതിനാൽ ആത്യന്തികമായി ഇതിന് കുറച്ച് പരിമിതമായ മൂല്യമുണ്ടാകും നിങ്ങൾക്ക് u y എന്ന പദപ്രയോഗം ഉണ്ട് അത് K II ബൈ G റൂട്ട് r ബൈ 2 പൈ കോസ് തീറ്റ ബൈ 2 മൈനസ് 1 പ്ലസ് 2 ന്യൂ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ് പ്ലെയിൻ സ്ട്രെസ് നുള്ള പദപ്രയോഗവും ഞാൻ എഴുതാം പ്ലെയിൻ സ്ട്രെസ് ന് നിങ്ങൾക്ക് u z ഡിസ്പ്ലേസ്മെൻറ് ഘടകവും ഉണ്ടാകും വാസ്തവത്തിൽ ചില ക്ലാസുകളിൽ ഒരു മോഡ് I ന്റെ കാര്യത്തിൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഒരു ഡിംപിളിൾ എങ്ങനെ ക്രാക്ക് ടിപ്പിന് സമീപം രൂപീകരിച്ചു അത് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു ഇത് സ്ട്രെസ് വളരെ ഉയർന്നതാണെന്നും വിള്ളലിന് സമീപം പോയിസൺ പ്രഭാവം വളരെ പ്രാധാന്യമർഹിക്കുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു കാരണം പോയിസൺ പ്രഭാവം കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സ്പ്രഷനുകളിൽ സ്ട്രെസ് വളരെ ഉയർന്നതാണ് അവ വളരെ ശക്തമായി കാണപ്പെടുന്നു ശരി നിങ്ങൾക്ക് u x K II ബൈ G റൂട്ട് r ബൈ 2 pi സൈൻ തീറ്റ ബൈ 2 ഗുണം 2 ബൈ 1 പ്ലസ് ന്യൂ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് ലഭിക്കും അപ്പോൾ u y KII ബൈ G റൂട്ട് r ബൈ 2 pi കോസ് തീറ്റ ബൈ 2 ഗുണം മൈനസ് 1 മൈനസ് ന്യൂ വിഭജനം 1 പ്ലസ് ന്യൂ പ്ലസ് സൈൻ സ്ക്വയേർഡ് തീറ്റ ബൈ 2 എന്ന് ലഭിക്കുന്നു Uz 2 ന്യൂ ബൈ E ഗുണം K II റൂട്ട് r 2 പൈ സിൻ തീറ്റ ബൈ 2 എന്ന് ലഭിക്കും നിങ്ങൾ ഒരു പ്ലേറ്റ് കനം B എന്ന് പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ B കൊണ്ട് ഗുണിക്കണം അതിനാൽ ഇത് നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് നൽകുന്നു ഇത് ക്രാക്ക് ടിപ്പിനെ ഉത്ഭവമായി പരാമർശിക്കുന്നു ഒരു കുറിപ്പ് ഉണ്ടാക്കുക ക്രാക്ക് ടിപ്പ് ഉറവിടമായി ഈ പദപ്രയോഗങ്ങൾ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് ഇവ രണ്ടും കൂട്ടിയോജിപ്പിച്ച് പൊതുവായ ഒരു പദപ്രയോഗം നേടാനും കഴിയും ഈ വഴികളിലൂടെ ഈ വിവരങ്ങൾ വിവിധ പുസ്തകങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അവ നിങ്ങളുടെ കുറിപ്പുകളിൽ ഉണ്ടായിരിക്കണം അതിനാൽ നിങ്ങൾ ഒരു ഗവേഷണ പ്രബന്ധം എടുക്കുമ്പോൾ അതിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അടിസ്ഥാനകാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അത് എഴുതിയ രീതിയെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒരു നേട്ടമുണ്ടാകും എനിക്ക് ux എന്നത് K II ബൈ 2 G റൂട്ട് 2 റൂട്ട് r ബൈ 2 പൈ സിൻ തീറ്റ ബൈ 2 ഗുണം കാപ്പ പ്ലസ് 1 പ്ലസ് 2 കോസ് സ്ക്വയേർഡ് തീറ്റ ബൈ 2 എന്നും തുടർന്ന് u y K II ബൈ 2 G റൂട്ട് r ബൈ 2 പൈ കോസ് തീറ്റ ബൈ 2 ഗുണം 1 മൈനസ് കാപ്പ പ്ലസ് 2 സൈൻ സ്ക്വയേർഡ് തീറ്റ ബൈ 2 എന്നും ലഭിക്കും കാപ്പയെ 3 മൈനസ് ന്യൂ ബൈ 1 പ്ലസ് ന്യൂ എന്നു പ്ലെയിൻ സ്ട്രെസ്നും പ്ലെയിൻ സ്ട്രെയിനിന് 3 മൈനസ് 4 ന്യൂ എന്നും എടുക്കുന്നു നിങ്ങൾക്ക് ഒരു ചിത്രപരമായ പ്രാതിനിധ്യം ഉണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ക്രാക്ക് ടിപ്പ് ഉത്ഭവമായി കണക്കാക്കുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത് ഇത് വളരെ പ്രധാനമാണ് ഞാൻ അത് വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നു ഇത് നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നാം നിങ്ങൾ പുസ്തകം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ ആളുകൾ ഇത് ഒരു ടിപ്പ് അല്ലെങ്കിൽ കേന്ദ്രമായി നൽകുന്നു പരിഹാരം പ്ലെയിൻ സ്ട്രെസ്നാണോ അതോ പ്ലെയിൻ സ്ട്രെയിനിന് ആണോ എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് പരിശീലന കാഴ്ചപ്പാടിൽ ഇവയെല്ലാം വളരെ പ്രധാനമാണ് ഫ്രാക്ചർ മെക്കാനിക്സ് പരിശീലിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കഴിയുന്നതും വേഗത്തിൽ പരിഹാരം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു മോഡ് II നായുള്ള ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ചുകളും വെസ്റ്റർഗാർഡിന്റെ പരിഹാരത്തിൽ നിന്ന് ആസൂത്രണം ചെയ്ത ഫ്രിഞ്ചുകളുടെ താരതമ്യവും ഒരു മോഡ് II സാഹചര്യത്തിനായുള്ള ഒരു പരീക്ഷണത്തിൽ എനിക്ക് ലഭിക്കുന്ന സ്ട്രെസ് ഫീൽഡ് എന്താണെന്ന് അന്വേഷിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നു വെസ്റ്റർഗാർഡ് പരിഹാരം ഇതിനെ എങ്ങനെ താരതമ്യം ചെയ്യുന്നു നിങ്ങളുടെ മുമ്പത്തെ ക്ലാസുകളിലൊന്നിൽ നിങ്ങൾ ഇതിനകം ഒരു രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട് ഒരു മോഡ് II സാഹചര്യത്തിനായി കാണുന്ന ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേണുകളാണ് ഇവ ഇവ ഐസോക്രോമാറ്റിക്സ് ആണ് അവ നിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കറുപ്പും വെളുപ്പും നിറത്തിൽ കാണിച്ചിരിക്കുന്ന വെസ്റ്റർഗാർഡ് പരിഹാരം ഞാൻ കാണിക്കാം ഫോട്ടോഇലാസ്റ്റിറ്റിയിൽ നമ്മൾ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സ്രോതസ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ കറുപ്പും വെളുപ്പും നിറങ്ങൾ മാത്രമേ കാണൂ മൾട്ടി വേവ് ലെങ്ത് സ്രോതസ്സായ ഒരു വൈറ്റ് ലൈറ്റ് സ്രോതസ്സ് ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ വ്യത്യസ്ത വർണ്ണത്തിന്റെ ഫ്രിഞ്ച്കൾ ഞാൻ കാണും അതിനാൽ പരീക്ഷണാത്മക ഫ്രിഞ്ച്കൾ വർണ്ണാഭമായതാണെന്നും വെസ്റ്റർഗാർഡ് പരിഹാരം കറുപ്പും വെളുപ്പും ആണെന്നും തെറ്റിദ്ധരിക്കരുത് അതിനാൽ വെസ്റ്റർഗാർഡ് പരിഹാരം ഉപയോഗശൂന്യമാണ് അത്തരം കടുത്ത നിഗമനങ്ങളിൽ എത്തിച്ചേരരുത് ഇവിടെ നമ്മൾ ജോമട്രി സവിശേഷതകൾ മാത്രമാണ് നോക്കുന്നത് ഇത് നോക്കൂ ആദ്യത്തെ നിരീക്ഷണം എന്താണ് ഒരു പരീക്ഷണത്തിൽ കാണുന്ന ഫ്രിഞ്ച് ഫീൽഡിനെ മാതൃകയാക്കാൻ സിംഗുലാർ പരിഹാരം നല്ലതാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ തീർച്ചയായും സൈദ്ധാന്തികമായി കണക്കാക്കിയ ഫ്രിഞ്ച്കളുടെ ജോമട്രി സവിശേഷതകളും പരീക്ഷണാത്മക ഫ്രിഞ്ച്കളും വളരെ നന്നായി പൊരുത്തപ്പെടുന്നു യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ബൈ ആക്സിയൽ ലോഡിംഗ് അല്ലെങ്കിൽ യൂണി ആക്സിയൽ ലോഡിംഗ് ഏതായാലും ഒരു പ്രശ്നവുമില്ല അത്തരം ആശയക്കുഴപ്പങ്ങളൊന്നും ഇവിടെ നിലവിലില്ല നിങ്ങൾ പിന്നീട് മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് പരിഹാരം നോക്കുമ്പോൾ പോലും മോഡ് II നായി നിങ്ങൾ കണ്ടെത്തും രണ്ടാമത്തെ ഘടകം 0 ആണെന്ന് അതിനാൽ ആ സന്ദർഭത്തിൽ ഞാൻ മോഡ് 1 ലേക്ക് മടങ്ങിപ്പോകുന്നു തുടർന്ന് ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്കളുടെ ജോമട്രി രൂപത്തിലുള്ള മാറ്റത്തെ രണ്ടാമത്തെ പദം സ്വാധീനിച്ച രീതി എന്താണെന്ന് കാണാൻ ശ്രമിക്കുന്നു ജോമട്രി മാറ്റം ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്കൾ നൽകിയിട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇലാസ്റ്റിഷ്യൻ ആയതിനാൽ ഞാൻ പക്ഷപാതപരനാണെന്ന് നിങ്ങൾ കരുതരുത് എന്തിനും ഞാൻ ഫോട്ടോലാസ്റ്റിറ്റി പറ്റി പറയുന്നു എന്ന് നിങ്ങൾക്ക് സിഗ്മ 1 പ്ലസ് സിഗ്മ 2 നൽകുന്ന ഹോളോഗ്രാഫി നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതുപോലുള്ള ഫ്രിഞ്ച് പാറ്റേൺ ലഭിക്കും ഫോട്ടോ ഇലാസ്റ്റിറ്റി എങ്ങനെ മികച്ചതാണെന്ന് നിങ്ങൾ വിലമതിക്കും ഒരു മോഡ് II സാഹചര്യവുമായി ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു ഫ്രിഞ്ച് പാറ്റേൺ നൽകുന്നു ഇത് ഐസോക്രോമാറ്റിക്സിനായി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ രസകരമാണ് അതിനാൽ ഒരു പ്രശ്നവുമില്ല മോഡ് II ന്റെ കാര്യത്തിൽ രണ്ടാമത്തെ ടേം നിലവിലുണ്ടെന്ന ആശയക്കുഴപ്പവുമില്ല ഞാൻ ഒരു മോഡ് I കേസ് എടുക്കുകയാണെങ്കിൽ ഐസോക്രോമാറ്റിക്സ് എങ്ങനെയാണെന്നും ഐസോപാച്ചിക്സ് എങ്ങനെയാണെന്നും ഞാൻ അന്വേഷിക്കേണ്ടതുണ്ട് ഈ ജോമട്രി സവിശേഷതകളുടെ ഒരു സ്കെച്ച് ദയവായി ഉണ്ടാക്കുക നിങ്ങൾക്ക് അവ നിറഭേദം വരുത്തേണ്ടതില്ല ഫ്രിഞ്ച് പാറ്റേൺ ദൃശ്യമാകുന്ന രീതിയിൽ നേടുക അത് വളരെ ഉപയോഗപ്രദമാകും ഫ്രാക്ചർ ആയി ബന്ധപ്പെട്ട ചില ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്കൾ കാണുമ്പോൾ ഏത് തരം ലോഡിംഗ് രീതിയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബന്ധപ്പെടുത്താനാകും വെസ്റ്റർഗാർഡ് പരിഹാരമെന്ന നിലയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായും നല്ലതാണെന്നതും ഇത് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നു ഫ്രാക്ചർ മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ വിള്ളലിനെ വളരെ സമീപത്ത് സംഭവിക്കുന്നതാണ് അല്പം മാറി സംഭവിക്കുന്നതിനെക്കാൾ പ്രധാനം ആ കാഴ്ചപ്പാടിൽ വെസ്റ്റർഗാർഡ് പരിഹാരം ഇപ്പോഴും വളരെ ഉപയോഗപ്രദമാണ് നിങ്ങൾ മോഡ് II സാഹചര്യം നോക്കുമ്പോൾ സിംഗുലാർ പരിഹാരം തന്നെ മതിയായതാണ്

ഇപ്പോൾ നമുക്ക് തിരികെ പോയി നോക്കാം മോഡ് 1 ൽ എന്ത് സംഭവിക്കും പരീക്ഷണാത്മക ഫ്രിഞ്ച്കൾ മുന്നോട്ട് ചരിഞ്ഞു നമ്മൾ കണ്ട ഒരു കേസാണിത് ഇത് പിന്നോക്ക ചരിവുള്ളതായി നമ്മൾ കണ്ട മറ്റൊരു കേസ് കണ്ടു ഈ ഫ്രിഞ്ച്ൽ രണ്ടാമത്തെ ഫ്രിഞ്ച് പിന്നിലേക്ക് ചരിഞ്ഞതും മൂന്നാമത്തെ ഫ്രിഞ്ച് മുന്നോട്ട് ചരിഞ്ഞതുമാണ് സമ്മർദ്ദം ഉള്ള സിലിണ്ടറിൽ പ്രത്യക്ഷപ്പെട്ട വിള്ളലാണിത് സിഗ്മ x സ്ട്രെസ് ടേമിനെ തിരുത്തൽ അല്ലെങ്കിൽ സിഗ്മ നോട്ട് x എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ പദത്തിന്റെ ചിഹ്നം എങ്ങനെയാണ് എന്ന് നമ്മൾ കാണും വിശകലന സാഹിത്യത്തിലും സംഖ്യാ സാഹിത്യത്തിലും ഞാൻ അതിനെ T സ്ട്രെസ് എന്ന് വിളിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് അവതരിപ്പിച്ചത് ഇർവിൻ ആണ് 1957 ൽ വെൽസും പോസ്റ്റും നേടിയ ഫലങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം സിഗ്മ നോട്ട് x അവതരിപ്പിച്ചു ഇത് മൈനസ് സിഗ്മ നോട്ട് x ആയി കാണപ്പെടുന്നു ശരി സിഗ്മ നോട്ട് x പോസിറ്റീവ് ആണെന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മൈനസിന് പുറത്താണ് പിന്നെ സിഗ്മ നോട്ട് x പോസിറ്റീവ് ആണ് അതിനാൽ മൊത്തം ഫലം സിഗ്മ നോട്ട് x ന്റെ മൈനസ് ആയിരിക്കും നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ഫ്രിഞ്ച്കൾ മുന്നോട്ട് ചരിഞ്ഞതും ടിൽറ്റ് ആംഗിൾ 90 ഡിഗ്രി ആകുന്നതും ആണ് ക്രാക്ക് ടിപ്പിനോട് അടുക്കുമ്പോൾ അത് പരീക്ഷണാത്മക ഫ്രിഞ്ച് പാറ്റേണുമായി നന്നായി താരതമ്യം ചെയ്യുന്നു മോഡ് I ലെ ഫ്രിഞ്ച് പാറ്റേണുകളിൽ T സ്ട്രെസിന്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ച ഇനി സിഗ്മ നോട്ട് x ൻറെ അടയാളം മാറ്റാം നിങ്ങൾ എന്താണ് കണ്ടെത്തുന്നത് ഫ്രിഞ്ച്കൾ നോക്കൂ നിങ്ങൾ ഫ്രിഞ്ച്കളെ വളരെ സൂക്ഷ്മമായി നോക്കണം ഒരു പദത്തിന്റെ അടയാളം മാറ്റിക്കൊണ്ട് മറ്റൊരു പരീക്ഷണാത്മക സാങ്കേതികതയും അത്ര സെൻസിറ്റീവ് ആയിരുന്നില്ലെന്ന് കാണുക ചിത്രം മുഴുവൻ ആയി മാറി ഈ സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് ചരിഞ്ഞതാണ് ഞാൻ ഈ ചിഹ്നം മാറ്റുമ്പോൾ അത് പിന്നിലേക്ക് ചരിഞ്ഞതാണ് ആളുകൾ ചിന്തിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ലെങ്കിൽപ്പോലും ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഫ്രിഞ്ച് പാറ്റേണുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വപ്രേരിതമായി ഫ്രിഞ്ച് പാറ്റേണുകൾ അവരെ ഒരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പെരുമാറുന്നത് അതിനാൽ ഇത് അഭികാമ്യമാണ് എനിക്ക് മുന്നിലേക്ക് ചരിവുള്ളതും ഫ്രിഞ്ച്കൾ പിന്നിലേക്ക് ചരിവുള്ളതും ഉണ്ട് ഇപ്പോൾ ഞാൻ വളരെ പ്രായോഗികമായ ഒരു പ്രശ്നം ഏറ്റെടുക്കുകയാണെങ്കിൽ മുന്നോട്ടും പിന്നോട്ടും ചരിഞ്ഞ ഫ്രിഞ്ച്കളുടെ സംയോജനമാണ് എനിക്കുള്ളത് അതിനാൽ അതിനർത്ഥം എനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ ശ്രേണിയിലെ രണ്ടാം ടേം കൊണ്ട് നിർത്താൻ എനിക്ക് കഴിയില്ല ഈ ശ്രേണിയിൽ എനിക്ക് നിരവധി പദങ്ങൾ എടുക്കേണ്ടിവരും അപ്പോൾ എനിക്ക് ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാൽ ഇത് ഉയർന്ന ഓർഡർ പദങ്ങൾക്കായി ഒരു വഴി നൽകുന്നു ചിഹ്ന മാറ്റം കാരണം അത്തരം വലിയ മാറ്റം നമ്മൾ ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേണുകൾ മാത്രമാണ് കാണിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം എന്തെങ്കിലും സുപ്രധാന മാറ്റം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അനുകരിച്ച ഒരു ഫ്രിഞ്ച് പാറ്റേണുകൾ കൂടി നിങ്ങളെ കാണിക്കുന്നു

അതിനാൽ നമ്മൾ എന്തുചെയ്യും അതേ പ്രശ്നത്തിന് നമ്മൾ ഐസോപാച്ചിക്സ് എടുക്കും മോഡ് 1 സാഹചര്യത്തിനായി ഐസോപാച്ചിക്സ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനാൽ എനിക്ക് ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് പാറ്റേണുകൾ ഉണ്ട് ദയവായി അതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക ഇത് സിഗ്മ നോട്ട് X പോസിറ്റീവ് ന്റെ ആണ്സിഗ്മ നോട്ട് x നെഗറ്റീവ് ആക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കാണാമോ ഞാൻ ഈ ചിത്രം നോക്കി പകർത്തി എന്ന് പറയരുത് അത് അങ്ങനെയല്ല ചെയ്യുന്നത് ഇത് വളരെ യാഥാർത്ഥ്യബോധത്തോടെയാണ് ചെയ്യുന്നത് വളരെ ചിട്ടയോടെ ഇത് അനുകരിച്ച് പിന്നീട് ഇട്ടു ഐസോപാച്ചിക്സ് സിഗ്മ 1 പ്ലസ് സിഗ്മ 2 നൽകും ഐസോക്രോമാറ്റിക്സ് സിഗ്മ 1 മൈനസ് സിഗ്മ 2 നൽകുന്നു എന്നാൽ ആശ്ചര്യകരമെന്നു പറയട്ടെ ഐസോക്രോമാറ്റിക് ഫ്രിഞ്ച്കൾ ഈ ശ്രേണിയിലെ രണ്ടാമത്തെ ടേമിന്റെ മാറ്റതിന് വളരെ സെൻസിറ്റീവ് ആണ് രണ്ടാമത്തെ ടേമിന് മാത്രമല്ല ശ്രേണിയിൽ കൂടുതൽ പദങ്ങൾ ചേർക്കുമ്പോൾ ഫ്രിഞ്ച് ജോമട്രി മാറുന്നു വാസ്തവത്തിൽ പിന്നീടുള്ള ക്ലാസുകളിലൊന്നിൽ ഇത് വിശദമായ ചർച്ചയായി നമ്മൾ കണക്കാക്കും അതിനാൽ ഇവിടെ ഹോളോഗ്രാഫി പോലുള്ള ഒരു സാങ്കേതികത കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഐസോപാച്ചിക്സ് നൽകുന്നു അത് നടത്താനും വളരെ ബുദ്ധിമുട്ടാണ് അതിന്റെ സ്വഭാവത്തിൻറെ അസ്തിത്വവുമായി അല്ലെങ്കിൽ നിലനിൽപ്പുമായി ബന്ധിപ്പിക്കുന്നതിന് വ്യക്തമായ മാറ്റമൊന്നുമില്ലെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അതും ഇവിടെ കാണിച്ചിട്ടില്ല സിഗ്മ നോട്ട് x 0 ആണ് എനിക്ക് ഫ്രിഞ്ച് പാറ്റേൺ ഇല്ല എനിക്ക് ഫ്രിഞ്ച് പാറ്റേൺ ഉണ്ടെങ്കിൽ ഞാൻ അതും താരതമ്യം ചെയ്യുന്നു മിക്സഡ് മോഡ് മോഡ് I മോഡ് II ഇപ്പോൾ മോഡ് I മോഡ് II എന്നിവ നോക്കിയാൽ മോഡ് I മോഡ് II എന്നിവയുടെ സംയോജനത്തിൽ ഫ്രിഞ്ച്കകൾ എങ്ങനെ ദൃശ്യമാകുമെന്ന് നോക്കാം ഇതാണ് സൈദ്ധാന്തികമായി അനുകരിക്കുന്നത് അതിനാൽ ഇത് സൈദ്ധാന്തികമായി അനുകരിക്കപ്പെടുമ്പോൾ പോലും അതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക നിങ്ങൾക്ക് ഈ കോണിൽ ഒരു വിള്ളൽ ഉണ്ട് ഈ ഡയഗ്രം വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് മുകളിലെ ഫ്രിഞ്ച് വലുപ്പത്തിൽ വളരെ വലുതും ചുവടെയുള്ള ഫ്രിഞ്ച് വലുപ്പത്തിൽ ചെറുതുമാണ് വ്യത്യാസം പ്രധാനമാണ് നിങ്ങൾ ക്രാക്ക് ആക്സിസ് ഒരു റഫറൻസായി നോക്കുകയാണെങ്കിൽ മുകളിലെ പകുതിയിലും താഴത്തെ പകുതിയിലുമുള്ള ഫ്രിഞ്ച്കളുടെ ചരിവ് വ്യത്യസ്തമാണ് ഈ പരിഹാരം എങ്ങനെ ലഭിച്ചു മോഡ് I ന്റെ രണ്ട് ടേം സൊല്യൂഷൻ മോഡ് II ന്റെ 1 ടേം സൊല്യൂഷൻ എന്നിവ കൂട്ടുമ്പോൾ ഇത് ലഭിച്ചു ദയവായി ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക പരീക്ഷണാത്മകമായി ലഭിച്ച ഫ്രിഞ്ച് പാറ്റേണുകളും നമ്മൾ പരിശോധിക്കും ഈ കേസിൽ അവ കൃത്യമായി പുനർനിർമ്മിക്കുന്നില്ല ഒരു ഗുണപരമായ താരതമ്യത്തിനായി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് അതിനാൽ ഫ്രിഞ്ച്കൾ വ്യത്യസ്തമായി ഓറിയന്റഡ് ആണെന്നും വലുപ്പവും വ്യത്യസ്തമാണെന്നും ഐസോപാച്ചിക്സ് നോക്കാമെന്നും ഇവിടെ കാണാം അതിനാൽ ഞാൻ ഐസോപാച്ചിക്സ് നോക്കുമ്പോൾ ഇത് ഇപ്പോഴും ഇതുപോലെയാണ് നിങ്ങൾ ഐസോപാച്ചിക്സിനായി പോകുമ്പോൾ ഉയർന്ന ഓർഡർ പദങ്ങളുടെ സ്വാധീനവുമായി ബന്ധപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഈ ഫ്രിഞ്ച് പാറ്റേണുകളുടെ ഒരു സ്കെച്ച് നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാട് നൽകുന്നു ആദ്യകാലങ്ങളിൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വികസനത്തിൽ ഫോട്ടോലാസ്റ്റിറ്റി എങ്ങനെ ഉപയോഗപ്രദമായിരുന്നു വാസ്തവത്തിൽ ഫോട്ടോഫെലാസ്റ്റിക് പരീക്ഷണങ്ങൾ മറ്റ് ഇന്റർഫെറോമെട്രിക് ടെക്നിക്കുകളേക്കാൾ വളരെ ലളിതമാണ് അവ നമ്മൾ ശരിയായ രീതിയിൽ ആണ് പോകുന്നത് എന്ന് കാണിക്കുന്ന വളരെ ഉപയോഗപ്രദമായ വിവരങ്ങളും പരിശോധിച്ചുറപ്പിക്കുന്നതിനുള്ള പ്രധാന വിവരങ്ങളും നൽകുന്നു ഈ ഫ്രിഞ്ച് പാറ്റേണുകളുടെ ജോമട്രി വരച്ച് എടുക്കാൻ നിങ്ങൾക്ക് മതിയായ സമയമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മോഡ് III നുള്ള ഡിസ്പ്ലേസ്മെൻറ് ഫോർമുലേഷൻ ഇപ്പോൾ മോഡ് III ലോഡിംഗ് സാഹചര്യം ചർച്ച ചെയ്യുന്നതിലേക്ക് നമ്മൾ നീങ്ങുന്നു ഇത് വീണ്ടും വളരെ ലളിതമാണ് നേരെ മുന്നോട്ട് പോയി സ്കെച്ച് എടുക്കുക എനിക്ക് തിക്നെസ്സ്ൻറെ ദിശയിൽ വിള്ളലുണ്ട് നിങ്ങളുടെ പക്കലുള്ളത് പ്ലെയിൻ ഷിയർ ൻറെ പുറത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അക്ഷങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു x ആക്സിസ് ഇതുപോലെയാണ് y ആക്സിസ് ഇതുപോലെയാണ് z ആക്സിസ് പ്ലേറ്റിന് ലംബമാണ് സ്ട്രെസ് ഫോർമുലേഷന് വിപരീതമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഡിസ്പ്ലേസ്മെന്റ് ഫോർമുലേഷൻ സൌകര്യപ്രദമാണ് ഒരിക്കൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ് രൂപീകരണത്തിനായി പോയാൽ ഡിസ്പ്ലേസ്മെൻറ് എങ്ങനെ എഴുതാമെന്ന് നമ്മൾ കണ്ടെത്തണം ഒരു ടോർഷൻ പ്രശ്നത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇതിനകം കണ്ടു നമുക്ക് വാർപ്പിംഗ് ഉണ്ടായിരുന്നു വാർപ്പിംഗ് എന്നത് x y ന്റെ ഒരു ഫംഗ്ഷൻ മാത്രമായിരുന്നു അത് വസ്തുവിൻറെ പ്ലെയിനിൽ ആയിരുന്നു അക്ഷത്തിൽ അത് സ്ഥിരമായി നിലനിൽക്കുന്നു പക്ഷേ അത് പ്ലെയിനിൽ വ്യത്യാസപ്പെടുന്നു ഒരു മോഡ് III കേസിലും സമാനമായ ഒരു സാഹചര്യം നിരീക്ഷിക്കപ്പെടുന്നു അതിനാൽ നമുക്ക് വാർപ്പിംഗ് സാഹചര്യം ഉണ്ടാകും അത് x y ന്റെ ഒരു ഫംഗ്ഷനായി മാത്രമേ നമുക്ക് ഉണ്ടാകൂ വിദൂര ഫീൽഡ് ഷിയർ സ്ട്രെസ് tau എന്നാണ് നൽകുന്നത് നമ്മൾ ഇവിടെ ഒരു ചിഹ്നവും ചേർക്കുന്നില്ല എന്നാൽ ചിത്രം കൊണ്ട് നിങ്ങൾക്ക് ഒരു ചിഹ്നം എളുപ്പത്തിൽ ചേർക്കാൻ കഴിയും അതിനാൽ ആദ്യം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് അനുമാനിച്ചെടുക്കണം ഡിസ്പ്ലേസ്മെൻറ്ന്റെ x ഘടകം 0 ഉം ഡിസ്പ്ലേസ്മെൻറ് ത്തിന്റെ y ഘടകം 0 ഉം u z ഘടകം x y യുടെ മാത്രം ഫംഗ്ഷൻ ആണ് ഇത് പ്രവർത്തിച്ചു ആളുകൾ ഇത് സാധ്യമായ ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് ആയി കണക്കാക്കി ഡിസ്പ്ലേസ്മെൻറ് രൂപീകരണത്തിൽ നിങ്ങൾ ചെയ്യുന്നതെന്താണ് നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ് ഉണ്ട് അതിൽ നിന്ന് സ്ട്രെയിൻ കണ്ടെത്തുക അതിൽ നിന്ന് സ്ട്രെസ് കണ്ടെത്തുക അതിർത്തി വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്ന ഡിസ്പ്ലേസ്മെൻറ് വിലയിരുത്തുന്നതിനാൽ അനുയോജ്യത വ്യവസ്ഥകളുടെ ആവശ്യമില്ല ഡിസ്പ്ലേസ്മെൻറ് അനുയോജ്യത സ്വപ്രേരിതമായി തൃപ്തികരമാണ് ഈ ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് അറിയുന്നതിനാൽ നിങ്ങൾക്ക് സ്ട്രെയിൻ ടെൻസറിന്റെ ഘടകങ്ങൾ എഴുതാം നിങ്ങൾക്ക് ഇത് സ്വയം ചെയ്യാൻ കഴിയും ഇത് സ്വയം ചെയ്ത് എന്റെ പരിഹാരം ഉപയോഗിച്ച് പരിശോധിക്കുക അതാണ് ഞാൻ അഭിനന്ദിക്കുന്നത് സ്ലൈഡുകളിൽ കാണിച്ചിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അന്ധമായി പകർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഇത് സ്വയം ചെയ്യണമെന്നും തുടർന്ന് സ്ഥിരീകരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഇവ വളരെ ലളിതമാണ് അത് ക്ലാസിൽ നിങ്ങളുടെ മനസ്സിനെ ജാഗ്രത പുലർത്താൻ സഹായിക്കും അതിനാൽ അവ ഇവിടെയുണ്ട് കാരണം എനിക്ക് u x 0 ന് തുല്യമാണ് u y 0 ന് തുല്യമാണ് എനിക്ക് എപ്സിലോൺ xx 0 ആണ് എപ്സിലോൺ yy 0 ആണ് കാരണം u z എന്നത് x y ന്റെ ഒരു ഫംഗ്ഷനാണ് എപ്സിലോൺ zz ഉം 0 ആണ് എപ്സിലോൺ xy 0 ഉം ആണ് അതിനാൽ പൂജ്യമല്ലാത്ത സ്ട്രെയിൻ ഘടകങ്ങൾ എപ്സിലോൺ xz മാത്രമാണ് അത് 1ബൈ 2 dou w ബൈ dou x ഉം എപ്സിലോൺ yz 1 ബൈ 2 dou w ബൈ ഉം dou y എന്നും ലഭിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് w നായി ഒരു സ്ട്രെസ് ഫംഗ്ഷൻ കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് മോഡ് I മോഡ് II സ്ട്രെസ് ഫംഗ്ഷൻ എന്നിവയ്ക്കായി നമ്മൾ വികസിപ്പിച്ചതിന് സമാനമാണ് w നായി ഉപയോഗിക്കുന്ന സ്ട്രെസ് ഫംഗ്ഷന്റെ രൂപം അവിടെ ഇത് ഒരു സ്ട്രെസ് ഫംഗ്ഷനായി ഉപയോഗിച്ചു ഡിസ്പ്ലേസ്മെൻറ് വിവരങ്ങൾക്ക് സമാനമായ ഒരു ഫോം ഇവിടെ ഉപയോഗിക്കും ഇപ്പോൾ എനിക്ക് ഡിസ്പ്ലേസ്മെൻറ് ഉം സ്ട്രെയിൻ ഉം ഉണ്ട് അടുത്ത ഘട്ടം സ്ട്രെസ് നെ വിലയിരുത്തുകയാണ് സിഗ്മ xx സിഗ്മ yy സിഗ്മ zz tau xy എന്നിവ തുല്യമാണ് ഇത് 0 ന് തുല്യമാണ് ഈ സ്ട്രെസ് ഘടകങ്ങളെല്ലാം 0 ലേക്ക് പോകുന്നു പൂജ്യമല്ലാത്ത സ്ട്രെസ് ഘടകങ്ങൾ tau xz ആണ് ഇത് G ഗുണം dou w ബൈ dou x തുല്യമാണ് tau yz z തവണ dou w ബൈ dou y യ്ക്ക് തുല്യമാണ് നിസ്സാരമല്ലാത്ത ഒരു പരിഹാരം ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം തുടർന്ന് ഞാൻ സന്തുലിതാവസ്ഥയിലേക്ക് നോക്കുന്നു പ്രസക്തമായ സന്തുലിതാവസ്ഥ z ദിശയിലാണ് dou tou xz ബൈ dou x പ്ലസ് dou tou yz പ്ലസ് dou y 0 ന് തുല്യമാകുന്നു കാരണം നിങ്ങളുടെ dou sigma z വിഭജനം dou z 0 ആണ് അതിനാൽ ഞാൻ ഇത് തൃപ്തിപ്പെടുത്തണം അതിനാൽ tau xz tau y z എന്നിവയ്ക്കുള്ള പദപ്രയോഗം ഞാൻ ഇതിൽ മാറ്റിസ്ഥാപിക്കുന്നു അതിന്റെ ഫലമായി എനിക്ക് del സ്ക്വയർ w 0 ന് തുല്യമായ ഒരു ലാപ്ലേസ് സമവാക്യം ലഭിക്കുന്നു ഇത് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണ് എനിക്ക് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ സമവാക്യം തൃപ്തിപ്പെടും എല്ലാ അനലിറ്റിക് ഫംഗ്ഷനുകളും എറിസ് സ്ട്രെസ് ഫംഗ്ഷന്റെ ഭാഗങ്ങൾ ആണെന്ന് നമ്മൾ ഇതിനകം കണ്ടു ലിങ്ക് അങ്ങനെയാണ് വെസ്റ്റർഗാർഡ് സമീപനം ഈ ഡിഫറെൻഷ്യൽ ഇക്വേഷന് ബാധകമാണ് അതിനായി w 1 ബൈ G ZIII യുടെ സാങ്കൽപ്പിക ഭാഗത്തിന്റെ തുല്യമായി തിരഞ്ഞെടുക്കണം നമ്മൾ അറിയണം എന്താണ് ZIII ZIII നെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല ZIII പ്രൈം എന്താണെന്ന് നമ്മൾ നിർവചിക്കും കാരണം അതാണ് നമുക്ക് ഉപയോഗപ്രദമാകുന്നത് ZIII പ്രൈം അതാണ് ഡിഫറൻഷ്യൽ ZIII യുടെ ആദ്യ ഡിഫറൻഷ്യൽ tau z ബൈ റൂട്ട് z സ്ക്വയർ മൈനസ് a സ്ക്വയർ ന് തുല്യമാണ് ഇത് നിങ്ങൾ മോഡ് I നായി കണ്ടതിനോട് വളരെ സാമ്യമുള്ളതാണ് ഇത് തന്നെ മോഡ് II ന് നിങ്ങൾ കണ്ടത് മോഡ് III ലും ഇത് പ്രത്യക്ഷപ്പെടുന്നു അതിന്റെ ചില വശങ്ങൾ വളരെ സമാനമാണ് അവിടെ ഇത് ഒരു സ്ട്രെസ് ഫംഗ്ഷനായി ഉപയോഗിച്ചു ഇത് ഡിസ്പ്ലേസ്മെൻറ് വിവരങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഇവിടെ ഇത് ZIII എന്ന് നിർവചിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ZIII പ്രൈം ആണ് നിർവചിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ പരിശോധിച്ചുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ അതിർത്തി വ്യവസ്ഥകളെയും തൃപ്തിപ്പെടുത്തുന്നു അതിർത്തി വ്യവസ്ഥകൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ സ്ട്രെസ് ഫംഗ്ഷൻ എല്ലാ അതിർത്തി വ്യവസ്ഥകളെയും തൃപ്തിപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾ വ്യക്തമാക്കുകയും വ്യവസ്ഥാപിതമായി പരിശോധിക്കുകയും വേണം നിങ്ങൾ ഇത് ഒരു എക്സർസൈസ് ആയി കണക്കാക്കണമെന്ന് ഞാൻ കരുതുന്നു മോഡ് III നായി ഈ പരിഹാരത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ഉണ്ട് അതിനാൽ നമ്മൾ ചെയ്ത എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ അതിന്റെ ഉത്ഭവം വിള്ളലിന്റെ മധ്യത്തിൽ നിന്ന് വിള്ളലിന്റെ അഗ്രത്തിലേക്ക് മാറ്റും അത് ചെയ്യുക R തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ട്രെസ് ഫംഗ്ഷൻ പ്രകടിപ്പിക്കുകയും സ്ട്രെസ് ഫീൽഡിനും ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിനും അന്തിമ എക്സ്പ്രഷൻ നേടുക അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഊർജ്ജ പുറന്തള്ളൽ നിരക്കിന്റെ ചില വശങ്ങൾ പരിശോധിച്ചു തുടർന്ന് സ്ട്രെസ് ഫീൽഡിന്റെയും മോഡ് II ന്റെ കാര്യത്തിൽ ക്രാക്ക് ടിപ്പിന് സമീപമുള്ള ഡിസ്പ്ലേസ്മെൻറ് മേഖലയുടെയും വികസനം നോക്കി മോഡ് II നും മോഡ് I നും മോഡ് I മോഡ് II എന്നിവയുടെ സംയോജനത്തിനായി ഫോട്ടോഇലാസ്റ്റിറ്റി വഴി ലഭിച്ച ഫ്രിഞ്ച് ഫീൽഡ് നമ്മൾ നോക്കി മോഡ് I സാഹചര്യത്തിന്റെ കാര്യത്തിൽ സീരീസിലെ രണ്ടാമത്തെ ടേം മാറുമ്പോൾ ജ്യോമട്രി സവിശേഷതകളിലെ സ്വാധീനം എന്താണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഒരു മോഡ് III സാഹചര്യത്തിന്റെ കാര്യത്തിൽ ഫോർമുലേഷൻ ചെയ്യുന്നതും നമ്മൾ കണ്ടു